ഏവർക്കും വീണ്ടും സ്വാഗതം ഇൻറലിജൻസിൻറെ ഉപവിഭാഗങ്ങളെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത് മ്യൂസിക്കൽ ഇൻറലിജൻസ് ബോഡലി കൈനസ്തെറ്റിക് ഇൻറലിജൻസ് എന്നിവ നാം കഴിഞ്ഞ പാഠഭാഗത്തിൽ ചർച്ച ചെയ്തു മൾട്ടിപ്പിൾ തിയറി ഓഫ് ഇൻറലിജൻസ് ഡൊമൈനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രണ്ട് പ്രധാന ബൌദ്ധിക കഴിവുകളാണ് ഇന്റർപർസണൽ ഇന്റാപർസണൽ എന്നിവ ഇമോഷണൽ ഇൻറലിജൻസിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇവ ഏറെ പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവരുടെ മാനസികാവസ്ഥ സ്വഭാവശൈലി ഉദ്ദേശം എന്നിവ തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും അതിൻറെ വെളിച്ചത്തിൽ പെരുമാറുവാനുമുള്ള ഒരു വ്യക്തിയുടെ കഴിവാണ് ഇന്റർപർസണൽ ഇൻറലിജൻസ് എന്നാൽ ഗോൾഡ്മാനെ പോലുള്ള വിദഗ്ധരുടെ കാഴ്ചപ്പാടിൽ ഇന്റാപർസണൽ ഇൻറലിജൻസ് എന്നത് സ്വയം അറിയുവാനും അതനുസരിച്ച് സ്വയം ക്രമീകരിക്കുവാനുമുള്ള കഴിവാണ് അതേസമയം ഇന്റർപർസണൽ ഇൻറലിജൻസ് മറ്റുള്ളവരുടെ പ്രതികരണം ഉദ്ദേശം എന്നിവ മനസ്സിലാക്കുവാൻ നമ്മുടെ സജ്ജരാക്കുന്നു നാച്ചുറലിസ്റ്റ്ക്ക് ഇൻറലിജൻസ് ഉള്ള വ്യക്തികൾ സസ്യങ്ങൾ മൃഗങ്ങൾ പ്രകൃതിയിലുള്ള മറ്റ് വസ്തുക്കൾ എന്നിവയോട് ഒരു പ്രത്യേക മമത പുലർത്തുകയും അവയെ വേണ്ടരീതിയിൽ മനസ്സിലാക്കുന്നവരും ആയിരിക്കും ചില വ്യക്തികൾക്ക് ജീവിതത്തിൻറെ അർത്ഥം മരണം മനുഷ്യ ജീവിതത്തിൻറെ മറ്റ് അവസ്ഥകൾ എന്നിവ മനസ്സിലാക്കുവാനുള്ള പ്രത്യേക സെൻസിംഗ് കഴിവുകൾ ഉണ്ടായിരിക്കും ഇതിനെ എക്സിടെൻഷ്യൽ കഴിവുകൾ എന്ന് വിളിക്കുന്നു എന്നാൽ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം എല്ലാ തരത്തിലുള്ള കഴിവുകൾക്കും ഉദാഹരണത്തിന് കണക്കുമായി ബന്ധപ്പെട്ടത് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന അതിനുള്ള കഴിവ് എന്നിവയ്ക്കെല്ലാം ഇൻറലിജൻസ് എന്ന പദം ഉപയോഗിക്കുവാൻ സാധിക്കുമോ എന്നതാണ് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോൾ ഗാർഡനറിൻറെ അഭിപ്രായം ശരിയായിരുന്നു എന്ന് മനസ്സിലാകും അതായത് ആളുകൾക്ക് വിവിധതരത്തിലുള്ള ഇൻറലിജൻസ് ഉണ്ട് അപ്രകാരം ഇൻറലിജൻസിൻറെ നിർവചനത്തിൽ കാഴ്ചപ്പാടുകൾക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇൻറലിജൻസിൻറെ പരമ്പരാഗത ആശയമല്ലാത്ത ഇമോഷണൽ ഇൻറലിജൻസിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ആരംഭിക്കുവാൻ ഗാർഡനറുടെ തിയറി ഗവേഷകരെ പ്രേരിപ്പിച്ചു ബൌദ്ധിക കഴിവുകളുടെ വളർച്ച രണ്ട് പ്രധാന ആശയങ്ങളെ ആശ്രയിച്ചായിരിക്കും എന്ന് നാം മുമ്പ് മുമ്പ് ചർച്ച ചെയ്തിരുന്നു നേയ്ച്ചർ നർചർ എന്നിവയാണത് നേയ്ച്ചർ പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്നതും നർചർ സാഹചര്യത്തിൻറെയും പരിസ്ഥിതിയുടെയും സ്വാധീനങ്ങളെ കുറിക്കുന്നതുമാണ് പാരമ്പര്യത്തെയും പ്രകൃതിയുടെയും സ്വാധീനത്തെ കുറിക്കുന്ന ഈ രണ്ടു പഠനങ്ങളിൽ നിന്ന് അവ എപ്രകാരം നമ്മുടെ ഐക്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം ഒരുമിച്ച് വളർത്തപ്പെട്ട സമാനമായ ഇരട്ടകളെയും വ്യത്യസ്ത സാഹചര്യത്തിൽ വളർത്തപ്പെട്ട സമാനമായ ഇരട്ടകളെയും പ്രതിപാദിക്കുന്ന രണ്ട് നിറത്തിലുള്ള ഹിസ്റ്റോഗ്രാമുകൾ പരിശോധിക്കുമ്പോൾ അവരുടെ രൂപവും ജീവശാസ്ത്രപരമായ മറ്റ് സവിശേഷതകൾ എല്ലാം ഒരു പോലെ തന്നെ ആയിരുന്നാലും അവരുടെ ഇന്റലക്ച്വൽ പ്രൊഫൈൽ ഐ ക്യു എന്നിവ വ്യത്യസ്തമായിരിക്കും ഇക്കൂട്ടരുടെ പാരമ്പര്യപരമായ ഘടനകൾ ഒരുപോലെ ആണെങ്കിലും വളരുന്ന സാഹചര്യത്തിനനുസരിച്ച് ഇൻറലിജൻസിൽ മാറ്റങ്ങൾ സംഭവിക്കാം ഇതേപോലെ ഒരുമിച്ച് വളർത്തപ്പെട്ട സഹോദരങ്ങളുടെ കാര്യത്തിൽ പാരമ്പര്യത്തിന് പ്രാധാന്യമുണ്ട് വ്യത്യസ്ത സാഹചര്യത്തിൽ ജീവിക്കുന്ന വ്യക്തികളുടെ ഐക്യു പരിശോധിക്കുമ്പോൾ സാഹചര്യത്തിൻറെ ഗുണമേൺമയ്ക്ക് അനുസൃതമായി താരതമ്യേന ഐക്യു സ്കോറുകൾ വ്യത്യസ്തമായിരിക്കും കുട്ടികളെ മൂന്ന് വ്യത്യസ്ത സാഹചര്യത്തിൽ വളർത്തി എന്ന് ചിന്തിക്കുക ഈ കുട്ടികളുടെ ഐക്യു സ്കോറുകൾ വ്യത്യസ്തമായിരിക്കും ഗ്രാഫിക് നൽകിയിരിക്കുന്നത് പരിശോധിക്കുമ്പോൾ ടൈപ്പ് ഡി ആളുകൾ സുപ്പീരിയർ ഇൻറലിജൻസ് പുലർത്തുന്ന ആളുകളൊടും ടൈപ്പ് സി ആവറേജ് ഇൻറലിജൻസ് പുലർത്തുന്നവരൊടും ടൈപ്പ് ബി റീട്ടാർഡഡ് അഥവാ പ്രായത്തിനനുസരിച്ച് മാനസിക വളർച്ച ഇല്ലാത്ത ആളുകളുമായും ടൈപ്പ് എ മെൻറലി ഡിഫക്ടീവ് അതായത് മാനസിക വൈകല്യം നേരിടുന്ന ആളുകളുമായുള്ള ബന്ധത്തിലും ആയിരുന്നു ആകയാൽ മോശം സാഹചര്യത്തിലും സമാനമായ വ്യക്തികളോടുള്ള ബന്ധത്തിലും ജീവിക്കുന്നവർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അടുത്തതായി പ്രായത്തിന് അനുസൃതമായി ഐക്യുവിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത് ജനങ്ങളുടെ പ്രായത്തിൻറെ അടിസ്ഥാനത്തിൽ ഇതിൽ വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കാറുണ്ട് എന്ന് മനസ്സിലാക്കാം ഒരു വ്യക്തിയുടെ ബൌദ്ധിക വളർച്ച ആരംഭിക്കുന്നത് കുട്ടികാലത്താണ് ശരാശരി ഐക്യു സ്കോർ കുട്ടിക്കാലത്തും യൌവനകാലത്തും നന്നായി വളർച്ച പ്രാപിക്കുകയും പ്രായപൂർത്തിയായതിനു ശേഷം മാറ്റമില്ലാതെ തൽസ്ഥിതി തുടരുകയും ജീവിതത്തിൻറെ തുടർ കാലഘട്ടങ്ങളിൽ കുറയുകയും ചെയ്യുന്നു എന്നാൽ ആളുകളിൽ ഈ കുറവ് അനുഭവപ്പെടുന്നത് വ്യത്യസ്തമായ രീതികളിൽ ആയിരിക്കും ഒരേ ആളുകളെ കൂടെ കൂടെ ടെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ ബൌദ്ധിക നിലവാരം കുറയുന്നത് നാടകീയമല്ലാത്ത രീതിയിലാണ് ആളുകളുടെ ഐക്യു ഒരേ തലത്തിൽ നിലനിൽക്കുകയും മറ്റുചിലരുടെ കൂടുകയും ചെയ്യും ഇത് ഹോൺ ഡൊണാൾഡ്വോൺ Horn Donaldwon അവരുടെ പഠനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു വ്യക്തിയുടെ ബൌദ്ധിക വളർച്ചയിലെ തത്ത്വങ്ങൾ മനസ്സിലാക്കുന്നതിനായി മറ്റുചില സിദ്ധാന്തങ്ങളിലേക്ക് പോകാം ചുരുക്കത്തിൽ സൈക്കോമെട്രിക് സിദ്ധാന്തങ്ങൾ ഒരാളുടെ ബൌദ്ധിക ഡൊമെയ്നിന്റെ ഘടകങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നുവെന്ന് വിവരിച്ചു എന്നാൽ ഇതിലൂടെ വ്യത്യസ്ത ഘടകങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത തരം ബുദ്ധി അടിസ്ഥാനമാക്കി ആളുകളെ തരംതിരിക്കാനാകൂ അത് മനുഷ്യൻറെ ഇൻറലിജൻസിനെക്കുറിച്ച് സംസാരിക്കാൻ പര്യാപ്തമല്ല എൻറെ അഭിപ്രായത്തിൽ ഈ കാഴ്ചപ്പാടുകളെക്കാൾ ഉപരിയായി ഒരു വ്യക്തിയെ ബുദ്ധിയുള്ളവനാക്കി തീർക്കുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിവിധ പ്രക്രിയകളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട് മനുഷ്യൻറെ ബൌദ്ധിക നിലവാരവും കഴിവുകളും അവ എപ്രകാരം നമ്മിൽ ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് ചർച്ചചെയ്യുന്ന വിവിധ സിദ്ധാന്തങ്ങളെ നമുക്ക് മനസ്സിലാക്കാം നേരത്തെ ചർച്ച ചെയ്ത് ഇൻഫർമേഷൻ പ്രോസസിംഗ് തിയറിയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ഇവിടെ മൂന്നുതരത്തിലുള്ള ഇൻറലിജൻസാണ് സ്റ്റെയ്ൻബർഗ് പ്രതിപാദിക്കുന്നത് ആദ്യത്തേത് കംപോനൺഷ്യൽ ഇത് പ്രധാനമായും നമ്മുടെ ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുവാനും അത് ആവശ്യമായ ഘട്ടങ്ങളിൽ ഓർമ്മയിൽ കൊണ്ടുവരുവാനുമുള്ള കഴിവാണ് കൂടാതെ ഇവ പഠന കാര്യങ്ങളിൽ നമ്മെ സഹായിക്കുന്നു അടുത്തത് എക്സ്പീരിയൻഷ്യൽ ഇൻറലിജൻസ് നമ്മുടെ വിവിധ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പ്രശ്നങ്ങളെ ഉൾക്കാഴ്ചയോടെ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവാണിത് ഇത് നമ്മുടെ സർഗാത്മകതയെ കുറിക്കുന്നു കൂടാതെ ഐൻസ്റ്റൈൻ ലിയോനാർഡോ ഡാവിഞ്ചി എന്നീ പ്രതിഭകളെ പോലെ കലാപരമായും ശാസ്ത്രപരമായുമുള്ള കഴിവുകളെ പ്രദർശിപ്പിക്കുവാൻ സഹായിക്കുന്നതാണിത് സമാനമായ കഴിവുകൾ പെയിൻറുമാരുടെയും ആർട്ടിസ്റ്റുകളുടെയും പ്രവർത്തനത്തിൽ ദൃശ്യമാണ് ട്രൈയാർക്കിക്ക് തിയറി ഓഫ് ഇൻറലിജൻസിൽ triarchic theory of intelligence റോബർട്ട് സ്റ്റെർബർഗ് മൂന്നാത്തെ ആശയമായ കൺടെക്ച്വൽ ഇൻറലിജൻസിനെയും പരിചയപ്പെടുത്തുന്നു വളരെ പ്രായോഗികമായ രീതിയിൽ അനുദിനജീവിതസാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവാണിത് ഉദാഹരണത്തിന് മുൻപ് കാർ വാങ്ങിയ സാഹചര്യമില്ലായെങ്കിലും മറ്റൊരാളിൽ നിന്ന് വിലപേശി അത് വാങ്ങുവാനുള്ള കഴിവ് ഒരു പുതിയ വീട് വാങ്ങുമ്പോഴും മാർക്കറ്റിലെ കൃത്യമായ വില അറിയത്തില്ല എങ്കിലും നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് വിലപേശുകയും കച്ചവടം ലാഭകരമാക്കുകയും ചെയ്യം ഇങ്ങനെ അനുദിന ജീവിതത്തിലെ സാഹചര്യങ്ങളെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പ്രായോഗികമായി കൈകാര്യം ചെയ്യുവാനുള്ള കഴിവിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മറ്റൊരുദാഹരണം നിങ്ങൾ ആ വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു പാമ്പ് നിങ്ങളുടെ മുമ്പിൽ വന്നു എന്ന് വിചാരിക്കുക ഈ സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെ നേരിടും ഇതിനു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക കഴിവുകൾ ആവശ്യമാണോ പാമ്പ് പിടുത്തക്കാർ ഉപയോഗിക്കുന്ന രീതികളെ കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്കില്ല എങ്കിൽലും തനതായ കഴിവ് ഉപയോഗിച്ച് ആ സാഹചര്യത്തെ നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു ഇപ്രകാരം നമ്മുടെ കഴിവുകളെ പ്രായോഗികമായ രീതിയിൽ സാഹചര്യത്തിനനുസരിച്ച് ഉപയോഗിക്കുവാൻ സാധ്യമാകുന്നു ന്യൂറോ സൈക്കോളജിക്കൽ മോഡൽ ഓഫ് ഇന്റലിജൻസിൽ പഠനം നടത്തിയിരുന്ന കനേഡിയൻ സൈക്കോളജിസ്റ്റുകളായ ജെ പി ദാസ് ജാക്ക് എ നാഗ്ലിയേരി എന്നിവർ മുൻപോട്ടു വച്ച് ഒരു സുപ്രധാന സിദ്ധാന്തമാണ് പാസ്സ് മോഡൽ അഥവാ പാസ് തിയറി ഓഫ് ഇൻറലിജൻസ് ഇവിടെ പ്ലാനിങ് അഥവാ ആസൂത്രണം അറ്റൻഷൻ അഥവാ ശ്രദ്ധ സൈമൾടെനിയസ് പ്രോസസിംഗ് സക്സ്സീവ് പ്രോസസിംഗ് എന്നിവ ഉൾപ്പെടുന്നു ഈ തിയറിയെ കൂടുതലായി പരിശോധിക്കുമ്പോൾ പ്ലാനിങ് എന്നത് കൊഗ്നിറ്റീവ് പ്രവർത്തനങ്ങളെ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു നമ്മുടെ അറിവിനെയും പ്രക്രിയകളെയും ഉപയോഗിക്കുന്ന രീതി ഇൻറൻക്ഷനാലിറ്റി എന്നിവ ഉൾപ്പെടുന്നു കൊഗ്നിറ്റീവ് അല്ലെങ്കിൽ ഇൻറലെക്ച്വൽ ഫംഗ്ഷനുകൾക്ക് കാരണമായ പ്രത്യേക ഫംഗ്ഷണൽ സോണുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയ റഷ്യയിൽ നിന്നുള്ള ലൂറിയ എന്ന് സൈക്കോളജിസ്റ്റ് നിന്ന് എടുത്തിട്ടുള്ള ആശയങ്ങളാണിത് അടുത്തത് അറ്റൻഷൻ എന്നത് വളരെ ശ്രദ്ധാപൂർവ്വമായ കോഗ്നിറ്റീവ് ആക്ടിവിറ്റിയിൽ ഏർപ്പെടുക ശ്രദ്ധ പതറിപോകാതിരിക്കുക എന്നതാണ് ഇത് ലൂറിയയുടെ ഫസ്റ്റ് യൂണിറ്റിനെ സൂചിപ്പിക്കുന്നു സൈമൾടെനിയസ് സക്സ്സീവ് എന്നത് ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന രണ്ട് രീതികളാണ് ഇത് ലൂറിയയുടെ സെക്കൻഡ് യൂണിറ്റിനെ കുറിക്കുന്നു 1990 കളിൽ സയൻറിഫിക് അമേരിക്കൻസ് എന്നതിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഫംഗ്ഷണൽ ഓർഗനൈസേഷൻ ഓഫ് ദി ബ്രെയിൻ എന്ന ലേഖനത്തിലൂടെ ലൂറിയ വിവിധ കോഗ്നിറ്റീവ് ഫംഗ്ഷനുകൾ തലച്ചോറിലെ വിവിധ ഭാഗങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുവാൻ ശ്രമിച്ചു ആയതിനാൽ അറ്റൻഷൻ എന്നത് ഫസ്റ്റ് ഫംഗ്ഷണൽ സോൺ അതായത് ആദ്യ ഫംഗ്ഷണൽ സോണിൻറെയും സൈമൾടെനിയസ് സക്സ്സീവ് പ്രോസസിംഗ് രണ്ടാമത്തെ ഫംഗ്ഷണൽ സോണിൻറെയും ഭാഗമാണ് മൂന്നാമത്തെ ഫംഗ്ഷണൽ യൂണിറ്റ് പാസ്സ് തിയറിയിലെ സുപ്രധാന ആശയമായ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്ലാനിങ് എന്നത് ഒരു കുട്ടി തൻറെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ആവശ്യമായ മികച്ച മാർഗങ്ങളെ കണ്ടെത്തുകയും ക്രമീകരിക്കുകയും ശരിയായ വിധത്തിൽ അവ ഉപയോഗിക്കുകയും ചെയ്യുന്ന മാനസിക പ്രക്രിയയാണ് വ്യക്തമായ ചിന്താഗതിയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മാർഗ്ഗങ്ങൾ ആവിഷ്കരിക്കുക പ്രേരണകളെ നിയന്ത്രിക്കുക സ്വയം നിയന്ത്രിക്കുക പ്രോസസിങ് എന്ന ആശയത്തെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക അറിവ് വീണ്ടെടുക്കുക എന്നിവ പ്ലാനിംഗിൻറെ നേട്ടങ്ങളായി ബോബ് ജോൺസി യൂണിവേഴ്സിറ്റിയിലെ നാഗ്ലിയേരി ചൂണ്ടിക്കാണിക്കുന്നു അറ്റൻഷനു സഹായകരമാകുന്ന ഫംഗ്ഷണൽ സോണിൻറെ നേട്ടങ്ങളെ കുറിച്ചും അദ്ദേഹം പറയുന്നു അറ്റൻഷൻ എന്നത് നമ്മുടെ മാനസിക പ്രവർത്തനങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡൊമൈനാണ് ഈ മാനസിക പ്രക്രിയയിലൂടെ ഒരു വ്യക്തി തനിക്ക് വേണ്ടതും ഉചിതവുമായ സ്റ്റിമുലൈകളെ ശ്രദ്ധിക്കുകയും അല്ലാത്തവ നിരാകരിക്കുകയും ചെയ്യുന്നു ഇതു നമ്മുടെ ഓർമ്മയുടെ കാര്യത്തിലും പ്രധാനപ്പെട്ടതാണ് അതായത് ചില കാര്യങ്ങളെ നാം ഓർത്തു വെയ്ക്കുകയും മറ്റു ചില കാര്യങ്ങളെ ഓർമ്മയിൽ സൂക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നു ആകയാൽ നമ്മുടെ ഏകാഗ്രത ഓർമ്മശക്തി പഠനം എന്നീ പ്രക്രിയകളിൽ ശ്രദ്ധയ്ക്ക് വളരെ വലിയ പങ്കുണ്ട് അതിനെ ഫോക്കസ് പ്രീ കോഗ്നിറ്റീവ് ആക്ടിവിറ്റി സെലക്ടീവ് അറ്റൻഷൻ അതായത് വേണ്ട കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക റെസിസ്റ്റൻസ് റ്റു ഡിസ്ട്രാക്ഷൻ അശ്രദ്ധയെ പ്രതിരോധിക്കുവാനുള്ള കഴിവ് എന്നിങ്ങനെ അറിയപ്പെടുന്നു ആയതിനാൽ അറ്റൻഷൻ എന്നത് വളരെ പ്രധാനപ്പെട്ട ആശയമാണ് സൈമൾടെനിയസ് പ്രോസസിംഗ് എന്നത് ഒരു മാനസിക പ്രക്രിയയാണ് അതിലൂടെ ഒരു കുട്ടി തൻറെ സ്റ്റിമുലൈയ് അഥവാ ഉത്തേജനങ്ങളെ ഗ്രൂപ്പുകളിലേക്ക് സംയോജിപ്പിക്കുന്നു സ്റ്റിമുലൈയ് എന്നതിനെ അതിൻറെ ആകെത്തുകയിൽ നാം കാണുന്നു അതിൻറെ ഓരോ ആശയങ്ങളും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും കാണേണ്ടതുണ്ട് ഞാൻ ഒരു വ്യക്തിയെ കാണുമ്പോൾ അയാൾ ഒരു സുന്ദരനായ വ്യക്തിയാണെന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് നല്ല മനുഷ്യനാണ് എന്നു പറയുമ്പോൾ അയാളുടെ കഴിവുകൾ എല്ലാം വിശകലനം ചെയ്യുകയും അതിൽ നിന്ന് ഒരു ധാരണയിൽ എത്തിച്ചേരുകയുമാണ് ചെയ്യുന്നത് മുഴുവനായും ഭാഗികമായുമുള്ള രീതിയിൽ ലേണിങ് തിയറിയെ മനസ്സിലാക്കുമ്പോൾ മുകളിൽ പറഞ്ഞത് അവിടെ ഉചിതമാണ് വ്യക്തികളുടെ നിർദിഷ്ടമായ കഴിവുകൾ മാത്രം എടുത്ത് അയാളുടെ ഇൻറ്റലെക്ച്വൽ പ്രൊഫൈലിനെ മനസ്സിലാക്കുവാൻ നാം തുനിയാറില്ല ഒരു വ്യക്തി എത്രമാത്രം കഴിവുള്ളവനാണെന്ന് മനസ്സിലാക്കുവാൻ അയാളുടെ എല്ലാ കഴിവുകളെയും മനസ്സിലാക്കേണ്ടതുണ്ട് പഠന വിഷയങ്ങളെ ഓർമ്മയിൽ ഉൾപ്പെടുത്തുവാൻ സഹായിക്കുന്നതിനാൽ സക്സ്സീവ് പ്രോസസിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു വ്യക്തിക്ക് പ്രത്യേക സീരിയൽ ഓർഡറിൽ സ്റ്റിമുലൈയ്കളെ സംയോജിപ്പിക്കാൻ സാധ്യമാകുന്ന മാനസിക പ്രക്രിയയാണ് സക്സ്സീവ് പ്രോസസിംഗ് ഭൂരിഭാഗം കാര്യങ്ങളെ നാം ഓർത്തു വയ്ക്കുന്നത് ഇപ്രകാരമാണ് ഉദാഹരണത്തിന് നമ്പറുകൾ ഓർത്തു വയ്ക്കുന്നത് സീരിയൽ നമ്പറിൻറെ അടിസ്ഥാനത്തിലാണ് ആയതിനാൽ സക്സ്സീവ് പ്രോസസിംഗ് വേഗത്തിൽ പഠിക്കുവാൻ നമ്മെ സഹായിക്കുന്നു വേഗത്തിൽ കാര്യങ്ങൾ ഓർത്തു എടുക്കുവാൻ ഇത് സഹായകരമാണ് നമ്പറിൻറെ ഉദാഹരണം പരിശോധിക്കുമ്പോൾ ഒന്നിനുശേഷം രണ്ട് എന്ന അക്കമാണെന്നും എന്നും രണ്ടിന് ശേഷം മൂന്ന് എന്നും ഒരു ചങ്ങലയ്ക്ക് സമാനമായി അഥവാ ചെയിൻ ലൈക്ക് പ്രോഗ്രഷൻ ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ ഇത് സഹായിക്കുന്നു Refer Slide time 1725 മുകളിലത്തെ ചിത്രം ഇൻറലിജൻസിൻറെ പാസ്സ് തിയറിയും അതിൻറെ വിവിധ സോണുകളെയും കാണിക്കുന്നു അറൌസൽ അല്ലെങ്കിൽ അറ്റൻഷൻ എന്നത് ആദ്യത്തെ ഫങ്ഷണൽ യൂണിറ്റിലും സൈമൾടെനിയസ് സക്സ്സീവ് പ്രോസസിംഗ് എന്നത് രണ്ടാമത്തെ ഫംഗ്ഷണൽ യൂണിറ്റിലും പ്ലാനിങ് എന്നത് മൂന്നാമത്തെ ഫംഗ്ഷണൽ യൂണിറ്റിലും ഉൾപ്പെടുന്നു ഇവയെല്ലാം തന്നെ അതിൻറെ പ്രക്രിയകളിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു മുകളിലത്തെ മോഡൽ പരിശോധിക്കുമ്പോൾ ഈ പ്രക്രിയ കൂടുതൽ വ്യക്തമാകും നമുക്കൊരു ലക്ഷ്യം ഉണ്ടാകും എന്ന് കരുതുക ഈ ലക്ഷ്യം സാധ്യമാകണമെങ്കിൽ ഒരു പ്ലാനിങ് അത്യാവശ്യമാണ് അപ്രകാരം ഒരു പ്ലാനിങ് നമുക്ക് വ്യക്തമാണെങ്കിൽ ആ പ്ലാൻ ഉപയോഗിക്കുകയും അത് ആ സാഹചര്യത്തിൽ ഉചിതമാണോ എന്ന് പരിശോധിക്കുകയും ചെയ്യാം ആ പ്ലാൻ ഉചിതം ആണെങ്കിൽ അത് ഉപയോഗിച്ച് ആ പ്രവർത്തനം പൂർത്തീകരിക്കാം എന്നാൽ ആ പ്ലാൻ ഉചിതമല്ല എന്ന് മനസ്സിലാക്കുന്ന വശം മറ്റൊരു പ്ലാൻ തയ്യാറാക്കുകയും അത് ഉപയോഗിച്ച് പ്രവർത്തനം പൂർത്തീകരിക്കുകയും ചെയ്യാം ഇപ്രകാരം എല്ലാ ഫംഗ്ഷണൽ സോണുകളും പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാൻ സഹായകമാകുന്നത് ഇപ്രകാരമെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിലൂടെ ലഭ്യമാകുന്ന ഫലം നമ്മുടെ ബൌദ്ധിക കഴിവുകളെയും പ്രവർത്തനങ്ങളെയും സൂചിപ്പിക്കുന്നു പാസ്സ് തിയറിയെ അടിസ്ഥാനപ്പെടുത്തി 1996 ൽ ദാസും നെഗിലേരിയും Das Naglieri വികസിപ്പിച്ചെടുത്ത കൊഗ്നിറ്റീവ് അസൈമെൻറ് സിസ്റ്റം ഇന്ന് ലോക പ്രശസ്തമാണ് നാം മുമ്പ് ചർച്ച ചെയ്തതിനയ പ്ലാനിംഗ് അറ്റൻഷൻ സൈമൾടെനിയസ് സക്സ്സീവ് എന്നീ നാല് മേഖലകളാണ് ഇവിടെ അളക്കുന്നത് മാച്ചിംഗ് നമ്പേഴ്സ് പ്ലാൻ കോഡ് പ്ലാൻ കണക്ഷൻ എന്നീ മൂന്ന് പ്രധാന ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് പ്ലാനിങ് അളക്കുന്നത് രണ്ടാമത് അറ്റൻഷനിൽ നമ്പർ ഡിറ്റക്ഷൻ എന്ന് ടെസ്റ്റ് ഉപയോഗിക്കുന്നു ഇവിടെ നമ്പറുകളുടെ ഒരു സീരീസിൽ അക്കങ്ങൾ ആവർത്തിക്കപ്പെടുകയോ ചില അക്കങ്ങൾ എഴുതപ്പെടാതെ ഇരിക്കുകയോ ചെയ്യാം ടെസ്റ്റിൽ ഏർപ്പെടുന്ന വ്യക്തിയോട് അക്കങ്ങൾ എത്ര പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്നുണ്ട് എന്നോ ഏതെല്ലാം അക്കങ്ങൾ എഴുതാതെ വിട്ടുപോയിരിക്കുന്നു എന്നോ ചോദിക്കാം എക്സ്പ്രസ്സീവ് അറ്റൻഷൻ റെസപ്റ്റീവ് അറ്റൻഷൻ എന്നീ മറ്റു രണ്ട് ടെസ്റ്റുകൾ കൂടിയുണ്ട് നോൺ വെർബൽ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സൈമൾടെനിയസ് പ്രോസസ്സിംഗ് അളക്കുന്നത് അതിനാൽ ഒരു മുഴുവൻ മാട്രിക്സുകളുടെയും ചെറിയ ഭാഗം ഉദാഹരണമായി കാണുന്നില്ലെന്നും അഞ്ച് ആറ് ഇതര മാർഗങ്ങളുടെ സഹായത്തോടുകൂടി കാണാതായ കണക്ക് പിന്തുടരുന്നുവെന്നും പറയുന്നു ശരിയായ അക്കം കണ്ടെത്തുകയാണെങ്കിൽ മാട്രിക്സ് പൂർത്തിയാകപ്പെടുന്നു ഇപ്രകാരമാണ് സൈമൾടെനിയസ് പ്രോസസ്സിംഗ് കഴിവുകൾ അളക്കുന്നത് അടുത്തതായി സക്സ്സീവ് പ്രോസസിങ്ങിൻറെ ടെസ്റ്റാണ് വേർഡ് സീരീസ് അഥവാ പദ ശ്രേണി വാക്യ ആവർത്തനങ്ങൾ വാക്യത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ സ്പീച്ച് റേറ്റ് എന്നിവയിലൂടെയാണ് സക്സ്സീവ് പ്രോസസ്സിംഗ് അളക്കുന്നത് സി എ എസ് എന്നത് വ്യക്തിഗതമായ അടിസ്ഥാന മനശാസ്ത്ര പ്രക്രിയയുടെ അളവാണ് പരിശീലനം ലഭിച്ച പ്രൊഫഷണലുകളുടെ നിയന്ത്രണത്തിൽ 45 മുതൽ 60 മിനിറ്റുകൾക്കുള്ളിൽ നടത്തപ്പെടുന്നതാണ് പ്രധാനമായും അഞ്ചു മുതൽ 17 വയസ്സ് വരെ പ്രായമുള്ള വിദ്യാർഥികൾക്ക് വേണ്ടിയാണിത് രൂപകല്പന ചെയ്തിട്ടുള്ളത് ഇത് നിയന്ത്രിക്കുവാനും സ്കോർ നൽകുവാനും വളരെ എളുപ്പമാണ് തിയറിറ്റികലി ഡിറൈവ്ഡ് സ്കെയിൽസ് അതായത് തിയറിയുടെ സഹായത്തോടുകൂടി ഉളവായ 4 നാല് സ്കെയിലുകൾ ഇതിലുൾപ്പെടും ഈ കാണുന്നതാണ് സി എ എസ് കൊഗ്നിറ്റീവ് അസൈമെൻറ് സിസ്റ്റമിൻറെ ടൂൾ കിറ്റ് വിദ്യാർഥികളുടെ ഇൻറലിജൻസ് പ്രൊഫൈൽ വിലയിരുത്തുന്നതിനായി വ്യക്തിഗത അടിസ്ഥാനത്തിലൊ സ്കൂളുകളിലെ ലൈബ്രറിയിലെക്കായൊ ഇത് വാങ്ങാവുന്നതാണ് സ്കൂൾ കുട്ടികളുടെ കോഗ്നിറ്റീവ് കഴിവുകൾ വിലയിരുത്തുന്നതിനായി കൌൺസിലിംഗ് സെൻററുകൾക്കും വളരെ പ്രയോജനകരമാണ് ഇൻഫർമേഷൻ പ്രോസസിംഗ് തിയറ്ററുകളുടെ അടിസ്ഥാനത്തിൽ പ്രായം കൂടുന്നത് അനുസരിച്ച് ചില മേഖലകളെ ഇൻഫർമേഷൻ പ്രോസസിംഗ് ബാധിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഷോട്ട് ടേമം മെമ്മറി പഴയകാല കണ്ടുപിടിത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് 15 മുതൽ 20 സെക്കൻഡ് വരെ മാത്രം നിലനിൽക്കുന്നതായിരുന്നു എന്നാൽ ഇന്ന് ഇതിന് മാറ്റങ്ങൾ സംഭവിക്കുന്നു വർക്കിംഗ് മെമ്മറി എന്നറിയപ്പെടുന്ന വിഭാഗത്തിലെ മെമ്മറി ശരിയായ രീതിയിൽ പാലിച്ചില്ല എങ്കിൽ ഇൻഫർമേഷൻ പ്രോസസിങ്ങിനെ ബാധിക്കും ഷോട്ട് ടേമം അഥവാ ഹ്രസ്വകാല മെമ്മറിയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഓർമയിൽ സൂക്ഷിക്കുവാനും ഓർഗനൈസ് ചെയ്യുവാനുമുള്ള കഴിവാണിത് പ്രായം കൂടുന്നതനുസരിച്ച് എല്ലാ മാനസിക പ്രക്രിയകൾക്കും ഇൻഫർമേഷൻ പ്രോസസിംഗ് ചെയ്യുവാനുള്ള കഴിവ് കുറയുന്നതായി കാണുന്നു നമ്മുടെ പ്രതികരിക്കുവാനുള്ള കഴിവ് പരിപാടികൾ സംഘടിപ്പിക്കുവാൻ സംഭവങ്ങളുടെ ക്രമം എന്നീ കാര്യങ്ങളെ ഇത് ബാധിക്കുന്നു മാത്രമല്ല യാഥാസ്ഥിതിക ചിന്താഗതിയും ഇതിൻറെ ഒരു ബാക്കിപത്രമാണ് പുതിയ ചിന്താഗതികളെ സ്വീകരിക്കാതെ പഴയതിനെ മാത്രം ഉൾക്കൊള്ളുന്ന രീതിയാണിത് പുതിയ കാര്യങ്ങൾ കണ്ടെത്തുമ്പോൾ അതിനെ സ്വീകരിക്കാതെ നിലനിൽക്കുന്നതിലൂടെ ഇത് നമ്മെ ബാധിക്കുന്നു ഉദാഹരണത്തിന് ഒരു അപകടം സംഭവിച്ചതിനാൽ ഞാനൊരു ഓർത്തോപീഡിക് ഡോക്ടറിനെ കാണുകയുണ്ടായി അദ്ദേഹം ഒരു യാഥാസ്ഥിതിക ചിന്താഗതിക്കാരൻ ആകയാൽ രോഗികൾക്ക് സാമ്പത്തിക ഭാരം ഉണ്ടാക്കുന്ന നൂതന സംവിധാനങ്ങളായ എം ആർ ആയി MRI സി റ്റി സ്കാൻ എന്നിവയെ നിരാകരിക്കുകയും രോഗനിർണ്ണയത്തിന് ഒരു സാധാരണ എക്സ് റേ മാത്രം മതി എന്ന് ചിന്തിക്കുന്നു എന്നാൽ ആധുനിക ഡോക്ടർമാർ തങ്ങളുടെ പരിചയസമ്പന്നതയെക്കാൾ ഉപരിയായി മുകളിൽ പറഞ്ഞ സാങ്കേതികവിദ്യകളെ ആശ്രയിക്കുകയും രോഗനിർണയം ഏറ്റവും പ്രധാനമാണെന്ന് കരുതുകയും ചെയ്യുന്നു എന്നാൽ ഈ മനോഭാവത്തിന് പ്രായമാകുന്നത് അനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കുകയും പുതിയ കാര്യങ്ങളെ കൈക്കൊള്ളുവാൻ വൈമനസ്യം കാണിക്കുകയും ചെയ്യുന്നു ഐക്യു എന്ന ആശയത്തെ കുറിച്ചും എങ്ങനെയാണ് അത് വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നും ചോദിക്കുന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ് സാധാരണ ജനവിഭാഗത്തിൽ ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് ഈ ചാർട്ട് വ്യക്തമാക്കുന്നു ഇവിടെ പൊതു ജനസംഖ്യയുടെ ഐക്യു സ്കോറുകളും അവയുടെ വെർബൽ ഡിസ്ക്രിപ്ഷൻസും ദൃശ്യമാണ് മാനസിക വളർച്ച എത്താത്ത അവർ 2 2 ബോർഡർലൈൻ വ്യക്തികൾ 6 7 ഡൾ നോർമൽ എന്ന വിഭാഗത്തിൽപ്പെട്ടവർ 16 1 ആവറേജ് വിഭാഗത്തിൽപെട്ടവർ 50 ശതമാനവുമാണ് ബ്രൈറ്റ് ആയിട്ടുള്ളവർ 16 1 ശതമാനവും ബൌദ്ധികമായി ഉയർന്ന നിലവാരം പുലർത്തുന്നവർ 6 7 ശതമാനവും അതീവ ഉയർന്ന നിലവാരം പുലർത്തുന്നവർ 2 2 ശതമാനവുമാണ് ആകയാൽ എല്ലാ തരത്തിലുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് ഈ ഇൻറലിജൻസ് ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കുമ്പോൾ മനുഷ്യരുടെ ഉള്ളിൽ വിവിധ കഴിവുകൾ ഉണ്ടെന്ന് വ്യക്തമാകും ആകയാൽ മനുഷ്യൻറെ ഇൻറലിജൻസ് വിലയിരുത്തുവാനുള്ള വ്യത്യസ്തങ്ങളായ മാർഗ്ഗങ്ങളെ കുറിച്ചുള്ള ഉദാഹരണങ്ങൾ നിങ്ങളോട് പങ്കു വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു ഇൻറലിജൻസ് വിലയിരുത്തുന്നത് പരിശോധിക്കുമ്പോൾ ലഭ്യമായ വ്യത്യസ്ത ടെസ്റ്റുകളിൽ ഒന്നാണ് വെർബൽ ടെസ്റ്റ് പേപ്പറും പേനയും ഉപയോഗിച്ച് ഈ ചോദ്യങ്ങൾ കുട്ടികളോട് എഴുതുവാൻ ആവശ്യപ്പെടുന്നു ചില ചോദ്യങ്ങൾ നോൺ വെർബൽ തലത്തിൽ ആയിരിക്കും ഉദാഹരണത്തിനായി ചില ടെസ്റ്റുകളിൽ നിങ്ങൾക്ക് വുഡൻ ബോക്സുകൾ നൽകുകയും ചില ഡിസൈനുകൾ കാണിക്കുകയും ചെയ്യും വുഡൻ ബോക്സിൻറെ സഹായത്തോടുകൂടി ചില ഡിസൈനുകളിൽ നൽകുവാൻ നിങ്ങളോട് ആവശ്യപ്പെടും ഇത് വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ ബൌദ്ധിക കഴിവുകളെ മനസ്സിലാക്കുവാൻ സാധിക്കും ഒരു ചെറിയ ഇടവേളക്ക് ശേഷം നമുക്ക് വീണ്ടും കാണാം ഏവർക്കും നന്ദി